ഈ പ്രഭാഷണം ബ്രോഡ്ബാൻഡ് ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്ക് ഡിസൈനിനെക്കുറിച്ചായിരിക്കും കഴിഞ്ഞപ്രഭാഷണത്തിലെന്നപോലെ സിംഗിൾ സ്റ്റഫ് ഡബിൾ സ്റ്റഫ് മാച്ചിംഗ് മുതലായവ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അവ നാരോ ബാൻഡ് ഡിസൈൻ സ്കീമാണ് എന്നാൽ ഇക്കാലത്ത് സാങ്കേതികവിദ്യയുടെ പുരോഗതിക്കൊപ്പം വൈഡ് ബാൻഡ് വിഡ്ത് സിഗ്നലുകൾ വരുന്നു ഇതിന് വൈഡ് ബാൻഡ്വിഡ്ത്ത് സംവിധാനങ്ങൾ ആവശ്യമാണ് അതിനാൽ മൈക്രോ ഫ്രീക്വൻസികളിലെ ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്ക് അവയുടെ ബാൻഡ്വിഡ്ത്തും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ആ ബാൻഡ്വിഡ്ത്ത് എങ്ങനെ നേടാം എന്നതിനെ കുറിച്ച് ഈ പ്രഭാഷണത്തിൽ നമ്മൾ കാണും അത് ചെയ്യാൻ കഴിയുന്ന എലമെന്റ് അഥവാ ലളിതമായ സ്കീമുകളിലൊന്നിനെ ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോർമർ എന്ന് വിളിക്കുന്നു ഇത് അടിസ്ഥാനപരമായി ഒരു വലിയ സ്കീമിന്റെ ഒരു വിഭാഗമാണ് അതിനാൽ അതിൽ തന്നെ ഇത് ഒരു ബ്രോഡ്ബാൻഡ് ട്രാൻസ്ഫോർമർ അല്ല എന്നാൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഏത് ബ്രോഡ്ബാൻഡ് ഡിസൈൻ നേടാനും കഴിയും ഈ സ്ലൈഡിൽ ഒരു ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോർമറുകൾ കാണിച്ചിരിക്കുന്നു അതിൽ ക്വാർട്ടർ വേവ് അടങ്ങിയിരിക്കുന്നു അതായത് ഇതിന്റെ നീളം λ 4 ആണ് നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ട് അതിന്റെ ദൈർഘ്യം λ 4 ആണ് ഇത് ഒരു ലോഡ് ഇംപെഡൻസ് ZL മായി മാച്ച് ആവുന്നു ഈ വശം ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് ആണ് സാധാരണയായി ട്രാൻസ്മിഷൻ ലൈനുകളുടെ ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് യഥാർത്ഥ അളവുകളാണ് ഈ സാഹചര്യത്തിൽ അത് മാച്ച് ചെയ്യാനാകും അതിനർത്ഥം ഈ വശത്ത് നിന്ന് നമ്മൾക്ക് ഈ ഇൻപുട്ട് ഇംപെഡൻസ് കാണാം അത് യഥാർത്ഥ ZL ന് മാത്രം Z0 ആയിരിക്കും എന്നാൽ നമ്മളുടെ ZL യഥാർത്ഥമല്ലെങ്കിൽ നമ്മൾക്ക് ഒരു സ്റ്റബ് മാച്ചിങ് ഡിവൈസ് സ്ഥാപിക്കാമെന്നും സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ സ്റ്റബ് ഇതിൽ ഏതുവേണമെങ്കിലും നൽകാമെന്നും നമ്മൾക്കറിയാം തുടർന്ന് നിങ്ങൾക്ക് യഥാർത്ഥത ലോഡിലേക്ക് വരാൻ കഴിയും അതിന് ശേഷം ഈ ഇംപെഡൻസ് ട്രാൻസ്ഫോർമർ ഉപയോഗിക്കാം ഇപ്പോൾ ഇതാണ് ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോർമറിന്റെ ഗണിതശാസ്ത്രം ZL ലിൽ അവസാനിപ്പിക്കുന്ന λ 4 ദൈർഘ്യമുള്ള ഒരു ട്രാൻസ്മിഷൻ ലൈനിന്റെ ഇൻപുട്ട് ഇംപെഡൻസ് ആണ് Z¿ നമ്മൾ Z¿ ന് ഒരു സമവാക്യം എഴുതുമ്പോൾ അത് Z0 ന് തുല്യമായി വരുന്നു അതിൽ നിന്ന് നമ്മൾ Z0 ന്റെ പരിഹാരം കണ്ടെത്തുന്നു ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോർമർ ക്യാരക്ടറിസ്റ്റിക്സ് ഇംപെഡൻസ് Z1 അതിനാൽ ആ Z1 √Z0 ZL ആയി മാറുന്നു അതായത് നിങ്ങൾ ജ്യാമിതീയ ശരാശരി അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലൈനുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഇംപെഡൻസും ലോഡ് ഇംപെഡൻസും കാണുന്നു അതിനാൽ ഇതിലൂടെ നിങ്ങൾക്ക് Z1 നെ ഏത് മൂല്യവും ആക്കി മാറ്റാം എന്നാൽ Z1 മൂല്യമുള്ള ട്രാൻസ്മിഷൻ ലൈൻ നമ്മൾക്ക് ആക്കി മാറ്റാൻ കഴിയുമോ എന്നത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ നിർമ്മാണ സാങ്കേതികവിദ്യയെയും ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ ഏത് മൂല്യവും ഇതിനായി ശ്രമിക്കാവുന്നതാണ് അതിനാൽ ഏത് Z0 ലും ഏത് ZL ലും ചേർക്കാം അതിനാൽ ഡിസൈൻ ചെയ്ത ഫ്രീക്വൻസിയിൽ ഈ മാച്ച് ഒരു നല്ല ഇംപെഡൻസ് മാച്ച് നൽകുന്നു അതിനാൽ റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് 0 ആവുന്നു എന്നാൽ ഇത് ഒരു ഏകദേശ മൂല്യം ആണ് ആ ഡിസൈൻ ഫ്രീക്വൻസിയിൽ നിന്ന് നമ്മൾ അൽപ്പം മാറിയാൽ റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് 0 ആയിരിക്കില്ല അതിനാൽ ഒരു ഫ്രീക്വൻസി പ്രതികരണമുണ്ടാകും ഈ ഫ്രീക്വൻസി പ്രതികരണം പ്ലോട്ട് ചെയ്താൽ അത് വളരെ നാരോ ബാൻഡും വളരെ കൂർത്തതായിരിക്കു അതിനർത്ഥം ഡിസൈൻ ഫ്രീക്വൻസിയിൽ നിന്ന് നമ്മൾ ഫ്രീക്വൻസി മാറിയാൽ നമ്മൾക്ക് നല്ല മാച്ച് ഉണ്ടാകില്ല

ഈ l എന്നത് λ0 ആണ് അതിനാൽ ഈ പ്രത്യേക ലാംഡ λ നമ്മൾ രൂപകൽപന ചെയ്യുന്നു അതായത് ഒരു പ്രത്യേക ഫ്രീക്വൻസിക്ക് അനുബന്ധ വേവ് ലെങ്ത് λ0 എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അതിനാൽ മറ്റ് ഫ്രീക്വൻസിയിൽ മിസ്മാച്ച് ഉണ്ടാകും ആ മിസ്മാച്ചിനുള്ള ആവിഷ്കാരം നമുക്ക് ഉണ്ടാകാം അതിനാൽ ഇതാണ് അതിന്റെ ഗണിതം സ്റ്റബ് മാച്ചിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതുപോലെ βl ഇത് ട്രാൻസ്മിഷൻ ലൈനിന്റെ ഇലക്ട്രിക് ലെങ്ത് ആണ് അതിനെ f ന്റെ പ്രവർത്തനമായി പ്രകടിപ്പിക്കണം അതിനാൽ നമ്മൾ അത് പൂർത്തിയാക്കി ഇവിടെ എഴുതിയിരിക്കുന്നു ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോർമറിന്റെ ഇൻപുട്ട് പോർട്ടിൽ നിന്ന് നമ്മൾ നോക്കുന്ന റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് എന്താണ് അതിനെ ഗാമ ഇൻ എന്ന് വിളിക്കുന്നു ഇത് ഗണിതമാണെന്ന് നിങ്ങൾ കാണുന്നു ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ് നമ്മൾ ഡിസൈനിംഗ് ഫ്രീക്വൻസിയിൽ അല്ലെന്ന് പരിഗണിക്കുന്നു അതിനാൽ f കൃത്യമായി f 0 ൽ അല്ല കാരണം നമ്മൾ രൂപകൽപന ചെയ്താൽ റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് Γ¿ in 0 ആണ് പക്ഷേ നമ്മൾ അല്പം അകലത്തിൽ ആണ് അതിനാൽ ഇവ നൽകുന്ന ചില മൂല്യങ്ങൾ നമുക്കുണ്ട് ഇപ്പോൾ ഇതായിരുന്നു മുമ്പത്തെ ആവിഷ്കരം കോംപ്ലക്സ് റീഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് ഇപ്പോൾ VSWR എന്ന മിസ്മാച്ചിൽ നമ്മൾക്ക് താൽപ്പര്യമുണ്ട് അതിനാൽ അത് സ്കെയിലർ അളവിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ വിഎസ്ഡബ്ല്യുആർ ലഭിക്കാൻ റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റിന്റെ വ്യാപ്തി മതിയാകും അതിനാലാണ് നമ്മൾ റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നത് ആത്യന്തികമായി നമ്മൾ ചില ഗണിത കൃത്രിമത്വങ്ങൾ കാണിക്കുന്നതിലൂടെ അത് ചില ത്രികോണമിതി ബന്ധങ്ങളായി മാറുന്നത് നിങ്ങൾ കാണും ഇപ്പോൾ ഡിസൈൻ ഫ്രീക്വൻസിയിൽ നിന്ന് വളരെ അകലെയല്ലെന്ന് നമ്മൾ പറയുന്നു അതിനർത്ഥം f എന്നത് f0 ന് വളരെ അടുത്താണ് തുടർന്ന് l ഉം λ0 4 ൽ നിന്ന് വളരെ അകലെയല്ല എന്നാണ് അതിനാൽ കാര്യം തീറ്റ θ ആണ് അതായത് βl ആണ് അത് π 2 ന് വളരെ അടുത്താണ് അതിനാൽ ഏകദേശം കോസൈൻ വികിരണം ഉള്ള ഡിസൈൻ ഫ്രീക്വൻസിക്ക് സമീപമുള്ള റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് നമുക്ക് കാണാൻ കഴിയും അതിനാൽ ആ കാര്യം ഇവിടെ കാണിച്ചിരിക്കുന്നു നിങ്ങൾ ഗ്രാഫിൽ കാണുന്ന റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു ഗ്രാഫ് ഒരു കോസൈൻ ഗ്രാഫാണ് വ്യക്തമായും നിങ്ങൾ അകലെയാണെങ്കിൽ അത് കോസൈൻ അല്ല അതിന്റെ കൃത്യമായ രൂപം മുമ്പത്തെ കൃത്യമായ സമവാക്യം നൽകുന്നു ഈ താഴെ കാണുന്നതാണ് ശെരിയായത് ഇപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ടോളെറബിൾ റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് മാഗ്നിറ്റ്യൂഡ് ശരിയാക്കാൻ കഴിയും നമുക്ക് അതിനെ Γm എന്ന് വിളിക്കാം അതിനാൽ നിങ്ങൾ Γm ൽ നിന്ന് ഒരു തിരശ്ചീന രേഖ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫ്രീക്വൻസി റെസ്പോൺസിനെ മുറിക്കുന്ന 2 പോയിന്റുകൾ കാണാം അതിനാൽ നിങ്ങൾ ആ തീറ്റ സോണിനുള്ളിൽ തന്നെ തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ട്രാൻസ്ഫോർമർ സ്വീകാര്യമായ മേഖലയിലാണ് അതിനാൽ നിങ്ങളുടെ ഇംപെഡൻസ് മാച്ചിങ് കുഴപ്പമില്ല നിങ്ങളുടെ ട്രാൻസ്ഫോർമറിന്റെ ഇലക്ട്രിക്കൽ ബാൻഡ്വിഡ്ത്ത് Δθ ആണെന്ന് നമ്മൾക്ക് പറയാം ഇത് ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോർമറിന്റെ quarter കോസ് θ മാഗ്നിറ്റ്യൂഡ് അനുരൂപമായതാണ് എന്നതിന്റെ അർത്ഥം π 2 ന് ചുറ്റും തുല്യമാണ് എന്നാണ് അതിനാലാണ് ഈ വസ്തുവിന്റെ പകുതിയായി അതായത് 2 ആയി വിഭജിക്കപ്പെടുന്നത് അതിനാൽ π 2−θm എന്നത് വേവ് ഇലക്ട്രിക്കൽ ബാൻഡ്വിഡ്ത്ത് ആണ് ഇപ്പോൾ ആ ബാൻഡ്വിഡ്ത്തിന്റെ രണ്ട് അരികുകളിൽ ഒരു വശം θm ആണ് നമ്മൾ മറുവശത്തെ π θm എന്ന് വിളിക്കുന്നു അതിനാൽ നിങ്ങൾ അത് നൽകിയാൽ നിങ്ങൾക്ക് cos θm ന്റെ മൂല്യം ലഭിക്കും അതിനാൽ ഇത് θm ഉം റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റിന്റെ അനുവദനീയമായ പരമാവധി വ്യാപ്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു Γm വ്യക്തമായി നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്ന പരമാവധി ബേസ് W r എന്താണ് നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്ന പരമാവധി റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും തുടർന്ന് നിങ്ങളുടെ θm ന്റെ മൂല്യം എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താം വൈദ്യുത ദൈർഘ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുവെ നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് പ്രകടിപ്പിക്കുന്നില്ല അതിനാൽ ആ θ എന്നത് f ആയി പരിവർത്തനം ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ നമ്മൾ ഇലക്ട്രോമാഗ്നെറ്റിക് TM ലൈൻ തിരശ്ചീനമാക്കുന്നു സമയം കാണുക 1022 ഒരു വെബ് ഗൈഡിലും മറ്റ് കാര്യങ്ങളിലും ആ ബന്ധം രേഖീയമാണ് ആ ബന്ധം എല്ലായ്പ്പോഴും രേഖീയമായിരിക്കില്ല പക്ഷേ തീർച്ചയായും അവ തമ്മിൽ ഒരു നിശ്ചിത ബന്ധമുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഇതിനെ അടിസ്ഥാനമാക്കി കണ്ടെത്താനാകും ഇവിടെ നമ്മൾ ഒരു TM വേവിനായി നമ്മൾ ആ ബന്ധം കണ്ടെത്തുകയാണ് അതിനാൽ ഈ കാര്യം സ്വയം വിശദീകരണമാണെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ആ മൂല്യങ്ങൾ β മുതലായവ നൽകാം അതിൽ നിന്ന് നമ്മൾ ഇവിടെ βl എന്നത് ഒറ്റ സ്റ്റബ് കേസിൽ പോലെ ഒരു f f 0 ആയി പ്രകടിപ്പിക്കുന്ന ഈ ഭാഗം ഉണ്ടാക്കി ഇപ്പോൾ നമ്മൾ ഈ കൃത്രിമത്വത്തിന് അടുത്ത് Δ f f 0 എന്താണെന്ന് എഴുതുന്നു അതിനാൽ ഇത് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഫ്രീക്വൻസിസിയിലാണ് ആ θ മൂല്യത്തെ അടിസ്ഥാനമാക്കി നമ്മൾ ഇവിടെ അത് നൽകി ZL Z0 ന്റെ വിവിധ മൂല്യങ്ങൾക്കുള്ള ഫ്രീക്വൻസി പ്രതികരണം കൊണ്ട് അർത്ഥമാക്കുന്നത് സോഴ്സ് വശവും ലോഡ് വശവും ZL Z0 കൊണ്ട് വേർതിരിക്കുകയാണെങ്കിൽ ZL 10 മടങ്ങ് Z0 ആണ് ഇത് വളരെ നാരോ ബാൻഡ് ഫ്രീക്വൻസി പ്രതികരണമാണെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ ആ ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോർമർ ഇവിടെ വളരെ മൂർച്ചയുള്ളതാണ് ആണ് എന്നാൽ നിങ്ങൾ ഇവിടെ വന്നാൽ ZL Z0 നാല് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് വിശാലമായ ബാൻഡ്വിഡ്ത്ത് ഉണ്ട് നിങ്ങൾ ഇവിടെ ഏതെങ്കിലും പ്രത്യേക മൂല്യം എടുക്കുന്നു ഫ്രീക്വൻസി പ്രതികരണം മൂർച്ച കുറഞ്ഞതും കൂടുതൽ പരന്നതുമാണെങ്കിൽ നിങ്ങളുടെ ബാൻഡ്വിഡ്ത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ബ്രോഡ്ബാൻഡ് ഡിസൈനിന്റെ പ്രധാന ആശയം ഇതാണ് എനിക്ക് രണ്ട് വശങ്ങളുണ്ടെങ്കിൽ അതായത് ലോഡ് വശവുംസോഴ്സ് വശവും ഇവയുടെ ഇംപെഡൻസ് വളരെ അകലയല്ലെങ്കിൽ അതേ വിഭാഗത്തിൽ നിന്ന് എനിക്ക് വിശാലമായ ബാൻഡ്വിഡ്ത്ത് ഉണ്ടായിരിക്കും അതിനാൽ പല യഥാർത്ഥ കേസുകളിലും ലോഡും സോഴ്സും അകലെയാണ് അതിനാൽ നിങ്ങൾക്ക് വളരെ മൂർച്ചയുള്ള ഫ്രീക്വൻസി പ്രതികരണം ലഭിക്കും എന്നാൽ ഒരു വിഭാഗത്തിന് പകരം എനിക്ക് ഒന്നിലധികം വിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ഓരോ ഒന്നിലധികം വിഭാഗങ്ങളും ലോഡിന്റെയും സോഴ്സ് ഇംപെഡൻസിന്റെയും ചെറിയ മാറ്റം കാണുന്നുവെന്നത് അതിനെ മൊത്തത്തിൽ മെച്ചപ്പെടുത്താൻ കഴിയും തുടർന്ന് അതിന്റെ മാച്ച് വിശാലമാകും അതിനാൽ മൊത്തത്തിലുള്ള മാച്ച് 100 ശതമാനം ബാൻഡ്വിഡ്ത്ത് പോലുള്ള ഒന്നിനടുത്ത് വിശാലമാകും അതിനാൽ അതാണ് നമ്മളുടെ ആശയം അതുകൊണ്ടാണ് നമ്മൾ അതേ മിസ്മാച്ച് ട്രാൻസ്ഫോർമർ വീണ്ടും നോക്കുന്നത് ഇതാണ് വരുന്ന വേവ്സ് തുടർന്ന് ഇവിടെ ഒരു മിസ്മാച്ച് കാണുന്നു ഇവിടെ കാണുന്നത് ഒരു മിസ്മാച്ച് ട്രാൻസ്ഫോർമറാണ് അതിനാൽ കുറച്ച് ഭാഗം ഇവിടെ പോകുന്നു കുറച്ച് ഭാഗം ഇവിടെ വരുന്നു ഇത് വീണ്ടും ഇവിടെ വരുന്നു ഇവിടെ ഒരു മിസ്മാച്ച് കാണുന്നു അതിനാൽ അത് ഒരു റിഫ്ലക്ഷൻ കോയെഫിഷ്യയന്റ് ആയ ഗാമാ 3 യോടെ തിരികെ വരുന്നു തുടർന്ന് ഇവിടെ വീണ്ടും വരുന്നു ഇവിടെ ചില ഭാഗങ്ങൾ പ്രതിഫലിക്കുന്നു ചില ഭാഗങ്ങൾ ഇവിടെ പോകുന്നു ഇതിനെ അവർ Γ1 എന്ന് വിളിക്കുന്നു അതിനാൽ ഇത് ഇതുപോലെ ചിത്രീകരിക്കാം ചില ഭാഗം ഡിഫ്ലക്ട് ചെയ്തു കൂടാതെ പവറിന്റെ കാര്യത്തിൽ ഒന്നിലധികം റിഫ്ലക്ഷൻസ് കാണാം ഈ റിഫ്ലക്ഷൻസ് സമാനമാണ് ഇവിടെയും ധാരാളം പ്രതിഫലനങ്ങൾ നടക്കുന്നതായി നിങ്ങൾ കാണുന്നു അതിനാൽ എല്ലായിടത്തും നമുക്ക് അറിയാവുന്ന നമ്മുടെ വൈദ്യുതകാന്തിക പരിജ്ഞാനം ഉപയോഗിക്കാം അതായത് എല്ലായിടത്തുമുള്ള ഡിസ്ക്കണ്ടിന്യൂയിറ്റിയും ഇംപെഡൻസും ഒരു റിഫ്ലക്ഷൻ കോയെഫിഷ്യയന്റ് ഉയർന്നു വരാൻ കാരണം ആകുന്നു ഇപ്പോൾ Γ2 ഈ സ്ഥലത്ത് സംഭവിക്കുന്നതിനാൽ Γ2 ഇവിടെയുണ്ട് Γ1 ഇവിടെയുണ്ട് അതിനാൽ ഈ രണ്ട് സന്ദർഭങ്ങളിലും ഇംപെഡൻസ് ലെവൽ നേരെ വിപരിതമാണ് അതിനാലാണ് Γ2−Γ1 Γ 3 ഇതാണ് അതിനാൽ നിങ്ങൾക്ക് അതിന്റെ തുടർച്ചയുള്ള വോൾട്ടേജ് ഉണ്ട് അതിനാൽ അതിൽ നിന്ന് ഇത് പവർ തുടർച്ചയിൽ നിന്ന് വരുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും മൊത്തത്തിലുള്ള റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് എന്താണ് അത് ആദ്യത്തെ റീഫ്ലക്ഷന്റെ ആകെത്തുകയാണ് തുടർന്ന് രണ്ടാമത്തെ വേവ് ലോഡ് ലേക്ക് പോകുകയും തിരികെ വരുകയും ചെയ്യുമ്പോൾ അതിന്റെ ആകെത്തുക എത്രയാണ് അതിനാൽ ഇവയിലേക്ക് വരുന്ന ഒന്നിലധികം പ്രതിഫലനങ്ങൾ ആത്യന്തികമായി നമ്മൾ ഓട് സീരീസ് കണ്ടതിനാൽ അത് അനന്തമായ ശ്രേണി പോലെ വരുന്നു അതിനാൽ ഈ കേസുകളെല്ലാം പോകുന്നതും തിരികെ വരുന്നതുമായ വേവിന്റെ അതേ തരത്തിലുള്ളതാണ് അതിനാൽ നിങ്ങൾ അത് അവസാനമായി ചെയ്താൽ രണ്ട് പ്രതിഫലനങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് Γ കാണാം ഇനി ആ ജ്യാമിതീയ ശ്രേണി സംഗ്രഹിക്കാം അത് ഇതുപോലെയാകുന്നത് നമ്മൾ കാണും അതിനാൽ പ്രധാനമായ കാര്യം എന്തെന്നാൽ ആദ്യത്തെ പ്രതിഫലനം വളരെ പ്രധാനമാണ് രണ്ടാമത്തെ പ്രതിഫലനം അർത്ഥമാക്കുന്നത് ലോഡിലേക്ക് പോകുന്ന ഒരു ട്രാൻസ്മിഷൻ തിരികെ വരാൻ പോകുന്നു എന്നാണ് ഇവ രണ്ടും പ്രധാനമാണ് മറ്റുള്ളവയുണ്ടെങ്കിലും അവയുടെ മൂല്യം പക്ഷെ കുറഞ്ഞുകൊണ്ടിരിക്കും അതിനാൽ പ്രധാനമായും ഇവ രണ്ടും സ്റ്റേഡി സ്റ്റേറ്റ് നിർണ്ണയിക്കുന്നു അതിനാൽ ഈ മൾട്ടിപ്പിൾ റിഫ്ളക്ഷൻ പ്രതിഭാസത്തെ അടിസ്ഥാനമാക്കിയാണ് മൾട്ടി സെക്ഷൻ മാച്ചിങ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓരോ വിഭാഗത്തിലും വേവ് റിഫ്ലക്ഷൻ വളരെ ചെറുതാണ് ഞാൻ പറയന്നതുപോലെ നിങ്ങൾക്ക് ലോഡും ട്രാൻസ്മിഷനും ചെയ്യാം കൂടാതെ സെക്ഷന് ഓരോ നീളവും ഇംപെഡൻസും ഉണ്ട് അത് ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ ക്രമീകരിച്ചിരിക്കുന്നു അതായത് സോഴ്സ് ലോഡിനേക്കാൾ ഉയർന്ന ഇംപെഡൻസിൽ ആണെങ്കിൽ ക്രമേണഈ ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോർമറിന്റെ ഒന്നിലധികം വിഭാഗങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ കരുതുക അതിനാൽ ക്യാരക്റ്ററിസ്റ്റിക് ഇംപെഡൻസ് ക്രമേണ കുറയുന്നു മറുവശത്ത് സോഴ്സ്ന് കുറഞ്ഞ ഇംപെഡൻസും ലോഡിന് ഉയർന്ന ഇംപെഡൻസും ആണെങ്കിൽ നിങ്ങൾ ക്രമേണ വിഭാഗങ്ങളുടെ ക്യാരക്റ്ററിസ്റ്റിക് ഇംപെഡൻസ് വർദ്ധിപ്പിക്കും കൂടാതെ നമ്മൾ ഇതിനകം തന്നെ മൊത്തം പ്രതിഫലനത്തിന്റെ ഈ പൊതു സമവാക്യം ഇവിടെ എഴുതി ഇതാണ് അത് അതിനാൽ ഇത് പൊതു സമവാക്യമായിരിക്കും എന്ന് നമുക്ക് എഴുതാം ഇതിനൊപ്പം ഇത് സീരീസ് ആണെന്ന് നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ കൂടി അനുമാനിക്കുന്നു ഒന്ന് ട്രാൻസ്ഫോർമർ സിമട്രിക്കലാണ് സിമട്രിക്കൽ എന്നാൽ രണ്ടറ്റങ്ങളിലെ റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് നിലനിൽക്കുന്നു എന്നാണ് തൽകാലം എനിക്ക് ഒന്നിലധികം വിഭാഗങ്ങളുണ്ടെന്ന് കരുതുക അതിനാൽ ഈ വശം സോഴ്സ് ആണ് ഈ വശം ലോഡ് ആണ് ഇപ്പോൾ ഈ വിഭാഗത്തിന്റെ ചില പ്രതിഫലനങ്ങൾ എനിക്കുണ്ട് അത് സമയം കാണുക 1758 എന്നാൽ ഈ രണ്ട് വശങ്ങളിൽ നിന്നും സിമെട്രിക്കൽ ആയി രണ്ട് ഇംപെഡൻസുകൾ രണ്ട് റീഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് എന്നിവ നമ്മൾ കാണുന്നു ഇത് സിമെട്രിക്കൽ നെറ്റ്വർക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഒന്നായിരിക്കണം ഇതിനർത്ഥം അവയുടെ ഇംപെഡൻസ് ഒന്നുതന്നെയാണെന്നല്ല റീഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് നിലനിൽക്കുന്നു എന്നാണ് അതുപോലെ ഇതിനെ നമ്മൾ Γ2 എന്ന് വിളിക്കുകയാണെങ്കിൽ ഇതിനെയും Γ2 എന്ന് വിളിക്കും ഇത് വിചിത്രമാണ് അതിനാൽ അഞ്ചെണ്ണത്തിൽ ഇവ രണ്ടും ഒന്നുതന്നെയാണ് ഇതിനെ സിമെട്രിക്കൽ കാര്യങ്ങൾ എന്ന് വിളിക്കുന്നു Γ2 ΓN മുതലായവ എന്നാൽ ഇവിടെ നമ്മൾ പറഞ്ഞു Zn സിമെട്രിക്കൽ അല്ലെന്ന് നമ്മൾ അങ്ങനെ അർത്ഥമാക്കുന്നില്ല കാരണം ഇത് ഓരോന്നും ഈ മൈനസിനെ ആശ്രയിച്ചിരിക്കുന്നു ആ മൈനസ് സിമട്രിക്കൽ ആണ് അതിനാൽ അതിലൂടെ നിങ്ങൾക്ക് ഇത് 2 ഉം ഗ്രൂപ്പ് ചെയ്യാനാകും തുടർന്ന് ഇത് ഒരു കോസൈൻ സീരീസായി മാറും ഈ സീരീസ് Γ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണെന്ന് നിങ്ങൾ കാണുന്നു അതായത് Nθ cos N−2 θ മുതലായവ ഇത് മറ്റൊന്നുമല്ല ഇത് ഒരു ഫോറിയർ സീരീസ് ആണെന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതായത് ഒന്നിലധികം വിഭാഗങ്ങളുടെ റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന മൊത്തത്തിലുള്ള റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് റിഫ്ലക്ട് ചെയ്യുന്നു ഇത് ഒരു ഫ്യൂറിയർ സീരീസിൽ പ്രകടിപ്പിക്കുന്നു ഏത് ആർബിട്രറി ഫംഗ്ഷനും ഒരു ഫ്യൂറിയറിന്റെ ആകെത്തുകയായി ഒരു ഫ്യൂറിയർ സീരീസായി പ്രതിനിധീകരിക്കാമെന്ന് നമ്മൾക്കറിയാം അതിനാൽ നിങ്ങൾക്ക് ഇവിടെ നേടാനാകുന്ന ഏതെങ്കിലും ബ്രോഡ്ബാൻഡ് ഫ്രീക്വൻസി റെസ്പോൺസ് ഒന്നിച്ചുചേർക്കണമെങ്കിൽ അത് ഫോറിയർ നേൽക്കുന്ന ഉറപ്പാണെന്ന് നമ്മൾക്ക് പറയാൻ കഴിയും അതിനാൽ ഏതെങ്കിലും ആർബിട്രറി ഫ്രീക്വൻസി റെസ്പോൺസ് നിങ്ങൾക്ക് ഒന്നിച്ചുചേർക്കാൻ കഴിയും അതിനാൽ ആളുകൾ ഫ്രിക്വൻസി റെസ്പോൺസ് പരമാവധി പരന്നതായിരിക്കാൻ ശ്രമിച്ചു അതിനർത്ഥം നമ്മൾ ഇപ്പോൾ എവിടെയാണോ അവിടെ പൊരുത്തപ്പെടുന്ന ഒരു ഡിസൈൻ ഫ്രീക്വൻസി പോയിന്റ് നമ്മൾക്കുണ്ട് കഴിയുന്നിടത്തോളം എനിക്ക് വളരെ ഫ്ലാറ്റ് ആയ റെസ്പോൺസ് ഉണ്ടായിരിക്കും അത്തരം റെസ്പോൺസിനെ ബട്ടർവർത്ത് പ്രതികരണം എന്ന് വിളിക്കുന്നു ഒരു നിശ്ചിത അളവിലുള്ള മിസ്മാച്ച് എനിക്ക് നിലനിർത്താനോ സഹിക്കാനോ കഴിയുന്നതിനാൽ എനിക്ക് ഫ്ലാറ്റ് റെസ്പോൺസ് വേണ്ടെന്ന് ഇപ്പോൾ ആളുകൾ കണ്ടു അതിനാൽ താൽപ്പര്യമുള്ള റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് വ്യത്യാസപ്പെടുന്ന ആ മേഖലയ്ക്കുള്ളിൽ എനിക്ക് റിപ്പ്ൾസ് ഉണ്ടാകാം അതിന്റെ ഇംപെഡൻസ് ട്രാൻസ്ഫോർമർ വർദ്ധിപ്പിക്കാൻ കഴിയും അതിനെ ഇക്വിറിപ്പിൾ ബ്രോഡെസ്റ്റ്equiripple broadest അല്ലെങ്കിൽ ഒപ്റ്റിമൽ ഡിസൈൻ എന്ന് വിളിക്കുന്നു ഇപ്പോൾ സാധാരണയായി ചെബിഷെവ് ആകൃതിയിലുള്ള ഫംഗ്ഷനുകൾ ഉണ്ട് അത് ഉപയോഗിച്ച് ഈ ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാൽ ഞാൻ എന്റെ പാസ് ബാൻഡിൽ നിന്ന് പുറത്തുകടക്കുമ്പോൾ ഞാൻ എന്റെ ബാൻഡ്വിഡ്ത്തിന് പിന്നാലെയാണ് എന്ന് പറയാം വളരെ ഷാർപ് ആയ റിഫ്ലക്ഷൻ കോയേഫിഷ്യന്റ് മാറ്റം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ആ ഫ്രീക്വൻസികളുടെ ചില സിഗ്നലുകൾ പുറന്തള്ളപ്പെടുന്നു ഇപ്പോൾ വിവിധ ദീർഘവൃത്താകൃതിയിലുള്ള ഫംഗ്ഷനുകളെ ഷാർപ്പസ്റ്റ് റോൾ ഓഫ് എന്ന് വിളിക്കുന്നു അതിനാൽ ഇതെല്ലാം അത് കൊണ്ട് ഒന്നിച്ചുചേർക്കാൻ കഴിയും അതിലൊന്നാണ് ഇവിടെ കാണിക്കുന്നത് ബാക്കിയെല്ലാം ഈ ക്ലാസിൽ എടുക്കാൻ പറ്റില്ല അതിനാൽ പരമാവധി ഫ്ലാറ്റ് പ്രതികരണം ഇതാണ് ബട്ടർവർത്ത് പ്രതികരണം ഇത് പോലെയാണ് ക്വാർട്ടർ മൂല്യമുള്ള പ്രതികരണം നൽകിയിരിക്കുന്നത് മൊത്തത്തിലുള്ള റിഫ്ലക്ഷൻ Γ θ എന്നത് കോൺസ്റ്റന്റ് a യുടെ ഗുണനം ആയിരിക്കും ക്വാർട്ടർ മൂല്യമുള്ള പ്രവർത്തനത്തിന്റെ നിയമങ്ങൾ നിങ്ങൾക്കറിയാം അവ തുല്യ സൈക്കിളിൽ ആയിരിക്കും അതിനാൽ അവക്ക് സങ്കീർണ്ണമായ ഒരു സ്പിൻ ആയിരിക്കാം അവ 1e− j2θ എന്ന് എഴുതാം നിങ്ങൾക്ക് ഇത് n ക്രമം വരെ ഉണ്ടെങ്കിൽ nth ക്രമം ബട്ടർവർത്ത് കൊണ്ട് ഗുണിക്കുന്നു നമ്മൾ ഗണിതശാസ്ത്രപരമായി അനുമാനിക്കുന്നത് വിപുലീകരിക്കാനാണ് നിങ്ങൾ മൊത്തത്തിലുള്ള റെസ്പോൺസ് കണ്ടെത്തുകയാണെങ്കിൽ പരമാവധി ഫ്ലാറ്റ് എന്നാൽ റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് ഫംഗ്ഷന്റെ ഏത് ഡിഫറെൻസിയേഷനും 0 വരെ ആയിരിക്കും അതായത് അത് nth ഓർഡർ വരെ ഫ്ലാറ്റ് ആയിരിക്കും അതിനാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് രൂപകൽപ്പന ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട് നിങ്ങൾ ഈ സമന്വയിപ്പിച്ച റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് കൈവരിക്കുന്നത്തിന് നിങ്ങൾ എത്ര വിഭാഗങ്ങൾ ചേർക്കുമെന്നുള്ളത് ഈ n ആയിരിക്കും പ്രതിനിധീകരിക്കുന്നത് അതോടൊപ്പം ഒന്നിലധികം വിഭാഗങ്ങളുടെ ക്യാരക്റ്ററിസ്റ്റിക് ഇമ്പിഡൻസ് എന്തായിരിക്കും എന്നും കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നിർണ്ണയിക്കുന്നതിന് നമ്മൾ f → 0 നൽകുന്നു ഇപ്പോൾ θ എന്നത് വൈദ്യുത ദൈർഘ്യം βl ആണ് β2 π λ ഇപ്പോൾ നമ്മൾ f → 0 നൽകിയാൽ അത് വെറും ഹൈപോത്തറ്റിക്കൽ ഫ്രീക്വൻസി 0 ആണ് അതായത് ഈ തരംഗദൈർഘ്യം അനന്തമാണ് അതിനാൽ 2 π λ ഈ θ യും 0 ആയി മാറുന്നു അതിനാൽ f → 0 എന്നാൽ θ→0 എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ നമുക്ക് ഇപ്പോൾ Γ ലഭിക്കുന്നു θ→0 സെക്ഷൻ 0 ന്റെ വൈദ്യുത ദൈർഘ്യം എന്താണ് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് അർത്ഥമാകുന്നത് ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ടായിരിക്കില്ല സോഴ്സ് നേരിട്ട് ലോഡ്ലേക്ക് നൽകുന്നു ഇത് നടക്കുമ്പോൾ മൊത്തം റിഫ്ലക്ഷന് സ്ഥലത്തെ റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് എന്തായിരിക്കും അവിടെ അധികം വ്യത്യാസം ഉണ്ടായിരിക്കില്ല ഇപ്പോൾ സോഴ്സ് നേരിട്ട് ലോഡിന് നൽകുന്നു അതിനാൽ റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് Γ ZL Z0ZL Z0 ആയിരിക്കും ക്വാർട്ടർ വർത് റെസ്പോൺസിൽ നിന്ന് നമ്മൾ അത് ചേർത്തു |Γ |2N|A| A2 N|ZL Z0| ഇപ്പോൾ നമുക്ക് ഈ Γ θ ഒരു ബൈനോമിയൽ സീരീസ് ആയി എഴുതാം അതായത് ഇതാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ ഇപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത് NCn ന്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെ എഴുതാം ഇവയാണ് ബൈനോമിയൽ ചെയിൻ ഇവയാണ് ബൈനോമിയൽ കോയെഫിഷ്യന്റ് അതിനാൽ താരതമ്യത്തിലൂടെ നിങ്ങൾക്ക് ഓരോ സ്റ്റേജ് റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് കണ്ടെത്താനാകും അതിനാൽ നിങ്ങൾക്ക് ഓരോ സ്റ്റേജ് റിഫ്ളക്ഷൻ കോയെഫിഷ്യന്റ് Γn കണ്ടെത്താനും തുടർന്ന് Γn ഏകദേശം കണക്കാക്കാനും കഴിയും ഇതൊരു swayam പ്രവർത്തനത്തിക്കുന്ന രീതിയിലാണ് അതിനാൽ അവസാനമായി ഈ Zn 1 വിഭാഗം ആന്തരിക വിഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രകടിപ്പിക്കാം ഇത് വിവിധ ഘട്ടങ്ങളിലെ സ്റ്റേജ് ഇംപെഡൻസും ക്യാരക്റ്ററിസ്റ്റിക് ഇംപെഡൻസും നിർണ്ണയിക്കുന്നതിനുള്ള വ്യത്യാസമാണ് ഈ പദപ്രയോഗം നൽകുന്ന റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റിന്റെ പരമാവധി മൂല്യം ഇതിൽ നൽകാമെന്ന് നമ്മൾ ഇതിനകം കണ്ടു അതിനാൽ θm ഇതാണ് അതിനാൽ സിംഗിൾ സെക്ഷൻ ട്രാൻസ്ഫോർമർ സ്ലൈഡുകൾ കാണുകയാണെങ്കിൽ ഇവക്ക് സ്വയം വിശദീകരിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ വളരെ ഫ്ലാറ്റ് ആയ റെസ്പോൺസ് ലഭിക്കുന്നു ഇത് ബട്ടർവർത്ത് റെസ്പോൺസ് ആണ് അതിനാൽ ഇവയുടെ സംഗ്രഹം ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്ക് നിങ്ങൾ കണ്ട പൊതുവായ പദപ്രയോഗങ്ങൾക്ക് പരമാവധി ഫ്ലാറ്റ് റെസ്പോൺസ് നേടുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിനാൽ ഒടുവിൽ നിങ്ങൾ എന്താണ് Γn എന്ന് കണ്ടെത്തേണ്ടതുണ്ട് തുടർന്ന് ഇവിടെ ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ പകുതിയാണ് അതിനാൽ അടുത്ത ലെക്ചറിൽ ഈ ബൈനോമിയൽ കോയെഫിഷ്യന്റ് ടേമ്സിൽ ഈ എക്സ്പ്രഷനുകൾ ഉപയോഗിക്കുന്നതിനുള്ള ഒരു ഉദാഹരണം നൽകും കൂടാതെ ഫ്രാക്ഷണൽ ബാൻഡ്വിഡ്ത്ത് മുമ്പത്തെപ്പോലെ ഉപയോഗിക്കും തുടർന്ന് ഫ്രാക്ഷണൽ ബാൻഡ്വിഡ്ത്തിന്റെ സവിശേഷതകൾ കണക്കാക്കും ഇത് മുഴുവൻ കാര്യത്തെയും മാറ്റിയതായി നമ്മൾ കാണും കൂടുതൽ വിഭാഗങ്ങൾ ചേർത്താൽ നമുക്ക് ഉയർന്ന ബാൻഡ്വിഡ്ത്ത് നേടുവാൻ കഴിയും അതിനാൽ 30 ശതമാനം 40 ശതമാനം 70 ശതമാനം 90 ശതമാനം ഇവ നിങ്ങൾ നേടാൻ കഴിയുന്ന ബാൻഡ്വിഡ്ത്ത് ആണ് നിങ്ങൾ നൽകുന്ന ഒരേയൊരു വില കൂടുതൽ വിഭാഗങ്ങൾ മുതലായവ മാത്രമാണ് കൂടാതെ ശാരീരികമായി നിങ്ങൾക്ക് ഇത് ചിന്തിക്കാം അതായത് ഇംപെഡൻസ് ലോഡ് ചെയ്യുന്നതിന് നമ്മൾ ഉറവിടം മാറ്റുന്നില്ല എന്നതാണ് ഒന്ന് പോയി ക്രമേണ നമ്മൾ ഇംപെഡൻസ് മാറ്റുകയാണ് അതിനാൽ ഓരോ വിഭാഗത്തിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഇംപെഡൻസ് അല്പം കൂടുതലാണ് സോഴ്സ് കുറഞ്ഞ ഇംപെഡൻസിലും ലോഡ് ഉയർന്നതിലും ആണെന്ന് നമുക്ക് പറയാം അതിനാൽ നമുക്ക് താഴെ നിന്ന് ഉയർന്നതിലേക്ക് പോകേണ്ടിവരും ക്രമേണ ആദ്യ വിഭാഗം അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇംപെഡൻസ് ഉറവിടത്തേക്കാൾ അൽപ്പം കൂടുതലായിരിക്കും അടുത്തത് അൽപ്പം കൂടുതലാണ് അതിനാൽ നമ്മൾ ഒരിടത്തും ഉയർന്ന റീഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് സൃഷ്ടിക്കുന്നില്ല ക്രമേണ വേവ് ക്രമാനുഗതമായി പോകുമ്പോൾ അത് മാച്ച് ചെയ്യാൻ അനുവദിക്കപ്പെടുന്നു അത് എവിടെയും വളരെ ഉയർന്ന തടസം കാണുന്നില്ല അതിനാൽ റിഫ്ലക്ഷൻ കുറവാണ് അതിനാൽ കൂടുതലോ കുറവോ വ്യത്യസ്ത ഫ്രീക്വൻസികൾ ഈ ട്രാൻസ്ഫോർമറിലേക്ക് എളുപ്പത്തിൽ കടന്നുപോകുന്നു അതാണ് ഭൌതികശാസ്ത്രത്തിലെ ആശയം എന്ന് ഞാൻ കരുതുന്നു ഇതോടെ നമ്മൾ നമ്മുടെ നിഗമനത്തിലെത്തിയിരിക്കുന്നു ഇതാണ് ബ്രോഡ്ബാൻഡ് അതിനാൽ ഈ മൊഡ്യൂളിലൂടെ ഈ ഇംപെഡൻസ് മാച്ചിങ് ആവശ്യകത എന്താണെന്നും അത് എങ്ങനെ നേടാമെന്നും നമ്മൾ കണ്ടു ആദ്യം നമ്മൾ അത് പാസീവ് ആയ രണ്ട് ഭാഗങ്ങളുടെ ഡിസൈനുകൾ വഴി കണ്ടു അതിനെ എൽ മാച്ചിംഗ് എന്ന് വിളിക്കുന്നു പിന്നീട് നമ്മൾ ഡിസ്ട്രിബ്യൂഡ് ലൈനുകൾ ഉപയോഗിച്ച് ചെയ്തു അതിനെ സ്റ്റബ്സ് എന്ന് വിളിക്കുന്നു അത് എങ്ങനെ ചെയ്യാം തുടർന്ന് ബാൻഡ്വിഡ്ത്ത് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നെല്ലാം നമ്മൾ കണ്ടു അതിനാൽ ഇംപെഡൻസ് മാച്ചിങ് പ്രയോഗികമാണ്